ആശംസകൾ ടാക്സോണമി ഓഫ് ലേണിംഗിന്റെ ഭാഗമായി വിജ്ഞാന വിഭാഗങ്ങളെക്കുറിച്ചുള്ള യൂണിറ്റിലേക്ക് സ്വാഗതം ടാക്സോണമിയിലെ അവസാന യൂണിറ്റിൽ വൈജ്ഞാനിക തലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം നമ്മൾ പര്യവേക്ഷണം ചെയ്തു അപ്ലൈ അഥവാ പ്രയോഗിക്കുക അനലൈസ് അഥവാ വിശകലനം ചെയ്യുക ഇവാലുവേറ്റ് അഥവാ വിലയിരുത്തുക ക്രിയേറ്റ് അഥവാ സൃഷ്ടിക്കുക അനലൈസ് എന്ന പദം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം അനലൈസ് എന്ന പദം ഭൂരിഭാഗം ഫാക്കൽറ്റികളും വളരെ അയഞ്ഞതോ പൊതുവായതോ ആയ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നാൽ ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി അനലൈസ് എന്ന പദത്തിന് വളരെ വ്യക്തമായ അർത്ഥം നൽകുന്നു അതിനാൽ നിങ്ങൾ ഈ ടാക്സോണമി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെഡഗോഗിക്കൽ പരിശീലനം പിന്തുടരുകയാണെങ്കിൽ അനലൈസ് എന്നാൽ ആൻഡേഴ്സണിന്റെയും ബ്ലൂമിന്റെയും പശ്ചാത്തലത്തിൽ വളരെ ഇടുങ്ങിയ അർത്ഥമുണ്ട് ഇവയെല്ലാം പരിശോധിച്ചുകഴിഞ്ഞാൽ ആറ് വിഭാഗത്തിലുള്ള വൈജ്ഞാനിക തലങ്ങൾ നിലവിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ വിജ്ഞാന പ്രക്രിയകൾ സംഘടിപ്പിക്കുന്ന രീതി ഓർക്കുക കോഴ്സുകളിലൂടെ അഭിസംബോധന ചെയ്യുന്നത് 'അണ്ടർസ്റ്റാൻഡ് അഥവാ മനസിലാക്കുക 'അപ്ലൈ അഥവാ പ്രയോഗിക്കുക എന്നിവ മാത്രമാണ് നിങ്ങൾക്ക് ഉയർന്ന വൈജ്ഞാനിക നിലകൾ വേണമെങ്കിൽ നിലവിലെ വിലയിരുത്തൽ സംവിധാനമോ നിലവിലെ പരീക്ഷാ സംവിധാനമോ ഇത് അനുവദിക്കുന്നില്ല ഈ ഉയർന്ന വൈജ്ഞാനിക തലങ്ങളിൽ നിന്ന് വരുന്ന ക്രിയകൾ ഇടുന്നതിലൂടെ യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ഉയർന്ന വൈജ്ഞാനിക തലങ്ങളുടേതാണെന്ന് അർത്ഥമാക്കുന്നില്ല അതിനാൽ ഇപ്പോൾ ഇത് റിമെമ്പർ അഥവാ ഓർമ്മിക്കുക 'അണ്ടർസ്റ്റാൻഡ് അഥവാ മനസിലാക്കുക 'അപ്ലൈ അഥവാ പ്രയോഗിക്കുക എന്നിവയാണ് ഒരാൾ എന്തുചെയ്യണം എന്നാൽ ചോദ്യങ്ങളുടെ ശതമാനമോ പ്രവർത്തനമോ റിമെമ്പർ അഥവാ ഓർമ്മിക്കുക എന്നതിലുപരി അണ്ടർസ്റ്റാൻഡ് അഥവാ മനസിലാക്കുക 'അപ്ലൈ അഥവാ പ്രയോഗിക്കുക എന്നിവയിലായിരിക്കണം അതാണ് ഇന്നത്തെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നത് ഇപ്പോൾ നിലവിലെ യൂണിറ്റ് M1U11 ൽ പൊതുവായ നാല് വിജ്ഞാന വിഭാഗങ്ങളുടെ സ്വഭാവം മനസിലാക്കാൻ നാം ശ്രമിക്കുന്നു ഇവ ഫാക്ച്വൽ കൺസെപ്ച്വൽ പ്രൊസീഡ്യൂറൽ മെറ്റാകോഗ്നിറ്റീവ് എന്നിവയാണ് അതായത് ഈ നാല് പൊതുവിഭാഗങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾ നോലെഡ്ജ് അഥവാ അറിവ് എന്ന പദത്തിലേക്ക് വരുന്ന നിമിഷം എല്ലാവരും വളരെ സുഖമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത് ഈ വാക്കിന്റെ ഉപയോഗം സാധുതയുള്ളതാകാം എന്നാൽ അറിവ് എന്താണെന്ന് നിർവചിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇത് ഉത്തരം നൽകാൻ എളുപ്പമുള്ള ചോദ്യമല്ല കാരണം കഴിഞ്ഞ 2000 വർഷമായി ഇത് തത്ത്വചിന്തയുടെ ആശങ്കയാണ് എന്നിട്ടും കൃത്യമായി അറിവ് എന്താണെന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിവ് എന്തെല്ലാം ചേർന്നതാണെന്നതിനെക്കുറിച്ചു ഒരു യോജിച്ച നിഗമനത്തിൽ എത്തി ചേർന്നിട്ടില്ല അതിനാൽ അറിവിന്റെ സ്വഭാവ സവിശേഷത ഇപ്പോഴും തത്ത്വചിന്തയുടെയും മനശാസ്ത്രത്തിന്റെയും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് അതിനാൽ അതിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ നമ്മൾ ശ്രമിക്കില്ല നാം ഒരു പ്രവർത്തന നിർവചനം നൽകാൻ പോകുന്നു അതിനർത്ഥം നമ്മുടെ കോഴ്സിന് അറിവ് എന്താണെന്ന് നാം രൂപകൽപ്പന ചെയ്യാൻ പോകുന്ന രീതിയാണിത് ഇപ്പോൾ വീണ്ടും ഒരു ലേബലായി നിങ്ങൾ കോഗ്നിറ്റിവിസ്റ്റ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരമ്പര്യമെന്ന് വിളിക്കുന്നതിനനുസരിച്ച് അറിവ് സംഘടിപ്പിക്കുകയും ഘടനാപരമായി ക്രമീകരിക്കുകയും ചെയ്യുന്നു കോഗ്നിറ്റിവിസ്റ്റ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരമ്പര്യം എന്നിവയെക്കുറിച്ച് നാം ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല നമുക്ക് അത് മറ്റൊരു മൊഡ്യൂളിൽ ചെയ്യാം എന്നാൽ അതാണ് നിങ്ങൾ അറിവ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന ചട്ടക്കൂട് അറിവ് ഡൊമെയ്ൻ നിർദ്ദിഷ്ടവും സന്ദർഭോചിതവുമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു അറിവ് സന്ദർഭോചിതമാണെന്നും കേവലമല്ലെന്നതും ഒരു ദാർശനിക വീക്ഷണം കൂടിയാണ് എന്ന് മനസിലാക്കുക അതിനാൽ ഇത് നമ്മൾ പ്രവർത്തനപരമായി കാണാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ വിജ്ഞാനത്തിന് നാല് പൊതുവിഭാഗങ്ങളുണ്ട് ഫാക്ട്വുവൽ കോൺസെപ്റ്റുവൽ പ്രോസെഡ്യൂറൽ പിന്നെ മെറ്റാകോഗ്നിറ്റീവ് കൂടാതെ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് സയൻസ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഈ നാല് വിഭാഗങ്ങൾ ബാധകമാണ് നാം പൊതുവെ പറയുന്ന മറ്റ് എന്തു പ്രൊഫഷണൽ വിഷയങ്ങൾ ആയാലും ഉദാഹരണത്തിന് മെഡിസിൻ ചാർട്ടേഡ് അക്കൌണ്ടൻസി എന്നിങ്ങനെ ഈ നാല് വിഭാഗങ്ങളും സാർവത്രികമായി ബാധകമാണ് എന്നാൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗിന് മാത്രമായി ചില പ്രത്യേക വിഭാഗത്തിലുള്ള വിജ്ഞാനം ഉണ്ട് ഇവ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും നീക്കംചെയ്യുന്നതു പോലെയാണ് ഫണ്ടമെന്റൽ ഡിസൈൻ പ്രിൻസിപ്പൽസ് അഥവാ അടിസ്ഥാന എഞ്ചിനീയറിംഗ് തത്വങ്ങൾ ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് അഥവാ മാനദണ്ഡങ്ങളും സവിശേഷതകളും പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് അഥവാ പ്രായോഗിക പരിമിതികൾ ഡിസൈൻ ഇൻസ്ട്രുമെന്റലിറ്റീസ് അഥവാ ഡിസൈൻ പ്രേരണകൾ എന്നിവയാണ് എഞ്ചിനീയറിംഗിന് പ്രത്യേകമായുള്ള ഈ നാല് വിഭാഗങ്ങൾ എഞ്ചിനീയറിംഗിന് മാത്രമായുള്ള ഈ നാല് വിഭാഗങ്ങളെ നമ്മൾ പിന്നീട് ഒരു യൂണിറ്റിൽ പരിശോധിക്കും എന്നാൽ ഇപ്പോൾ നമ്മൾ നാല് പൊതു വിഭാഗങ്ങളെ പരിശോധിക്കും മനസിലാക്കാൻ ഇത് വളരെ ലളിതമാണ് ഫാക്ട്വുവൽ നോളഡ്ജ് അഥവാ വസ്തുതാപരമായ അറിവ് വിഷയത്തെ നന്നായി മനസ്സിലാക്കാനോ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനോ വേണ്ടി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ ഇത് താരതമ്യേന താഴ്ന്ന തലത്തിലുള്ള അമൂർത്തത്തിലാണ് ഒന്നാമതായി ഓരോ വിഷയത്തിനും അതിന്റേതായ ഭാഷയുണ്ട് പ്രത്യേകമായി നിർവചിച്ചിരിക്കുന്ന പദങ്ങളുണ്ട് മാത്രമല്ല നിങ്ങൾ ആ പദങ്ങൾ ആ സന്ദർഭത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ അതിനർത്ഥം അവ ആ വിഷയത്തിന് പ്രത്യേകമാണ് ചില ഉപകരണങ്ങളുമായോ ചില പ്രവർത്തനങ്ങളുമായോ നാം ബന്ധപ്പെടുത്തുന്ന ചില ചിഹ്നങ്ങളുണ്ട് എന്തായാലും നിങ്ങൾക്ക് ചില പദങ്ങളും ചിലതരം ചിഹ്നങ്ങളും ഉണ്ട് അവയെല്ലാം വസ്തുതാപരമായ അറിവാണ് ഫാക്ട്വുവൽ നോളഡ്ജ് അഥവാ വസ്തുതാപരമായ അറിവിന്റെ ഉപവിഭാഗങ്ങളിൽ പദാവലി സംബന്ധിച്ച അറിവ് ഉൾപ്പെടുന്നു വേർഡ്സ് അഥവാ വാക്കുകൾ നുമേറൽസ് അഥവാ അക്കങ്ങൾ സൈൻസ് അഥവാ ചിഹ്നങ്ങൾ പിക്ചർസ് അഥവാ ചിത്രങ്ങൾ എന്നിവ വിവരണാത്മകവും കുറിപ്പടിയിലുള്ളതുമായ ഡാറ്റ ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട വിശദാംശങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം ഉദാഹരണത്തിന് ഇരുമ്പിന്റെ സാന്ദ്രത ഇത്രയാണ് അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഭാരം ഇത്രയാണ് എന്നിങ്ങനെ അതുപോലുള്ള വളരെ വ്യക്തമായ വിശദാംശങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അഥവാ വിവരണാത്മകമാണ് വിവരണാത്മകം എന്നതിന്റെ അർത്ഥം നിങ്ങൾ ഇതിനകം പ്രകൃതിയിൽ നിലനിൽക്കുന്നതിന്റെ വസ്തുതാപരവും നിർദ്ദിഷ്ടവുമായ വിശദാംശങ്ങൾ നൽകുന്നു എന്നാണ് പ്രിസ്ക്രിപ്റ്റീവ് ഡാറ്റ അഥവാ നിർദ്ദേശിത ഡാറ്റ എന്നാൽ എന്തെങ്കിലും ഒന്ന് അത്തരത്തിലുള്ളതോ ഇത്തരത്തിലുള്ളതോ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഈ കസേരയുടെ ഭാരം എന്തെങ്കിലും അളവിൽ കവിയാൻ പാടില്ലെന്ന് നമ്മൾ പറയും അതും പ്രിസ്ക്രിപ്റ്റീവ് അഥവാ നിർദ്ദേശിത ഡാറ്റയാണ് അതിനാൽ ഒരു എഞ്ചിനീയറോ മറ്റാരെങ്കിലുമോ വിവരണാത്മകവും നിർദ്ദേശിതവുമായ ഡാറ്റയുമായി പരിചയമുണ്ടായിരിക്കണം അതിനാൽ ഫാക്ട്വുവൽ നോളഡ്ജ്ന്റെ ഉപവിഭാഗങ്ങളാണിവ ടെർമിനോളജി അർത്ഥമാക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കാൻ ഞാൻ കുറച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉദാഹരണം നൽകുന്നു സിഗ്നൽ ടു നോയിസ് റേഷ്യോ ലോ പാസ് ഫിൽട്ടർ വിസിവിഎസ് സിസിസിഎസ് പവർ ഫാക്ടർ തുടങ്ങിയ ചില പദങ്ങൾ ഈ പദങ്ങൾ കൃത്യമായി നൽകുന്ന അർഥം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഒരുപക്ഷേ മെക്കാനിക്കൽ സിവിൽ മേഖലയിൽ നിന്നുള്ള ചില ആളുകൾക്കും ഈ വാക്കുകൾ പരിചിതമായിരിക്കാം എന്നാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പദാവലി പ്രബലമാണ് ഇന്ത്യയിലെ വൈദ്യുതി വിതരണ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് അല്ലെങ്കിൽ 50 ഹെർട്സ് ആയിരിക്കണം എന്ന് പറയുന്നു അർദ്ധചാലക ഉപകരണങ്ങൾ 120 ഡിഗ്രിക്ക് മുകളിൽ പരാജയപ്പെടുന്നു ബോൾ ഗ്രിഡ് അറേ പാക്കേജിംഗിന് 200 ലധികം ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ നൽകാൻ കഴിയും എന്ന് പറയുന്നു ഉദാഹരണത്തിന് ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് അനലോഗ് ഡിവൈസുകൾ രണ്ട് അർദ്ധചാലക നിർമ്മാതാക്കളാണ് വൈവിധ്യമാർന്ന അനലോഗ് ഐസികൾ നിർമ്മിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇവയെല്ലാം വസ്തുതകളും കണക്കുകളും ആണ് എന്നാൽ ഈ വസ്തുതകളിലും കണക്കുകളിലും ചിലത് ആന്തരികവൽക്കരിക്കേണ്ടതുമാണ് ഓരോ തവണയും എനിക്ക് പോയി എന്തെങ്കിലും പുസ്തകം പാഠപുസ്തകം പരിശോധിക്കുന്നത് തുടരാനാവില്ല ചില അക്കങ്ങൾ സമഗ്രമായി ആന്തരികവൽക്കരിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തീർച്ചയായും വിക്കിപീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ പൂർണ്ണമായും ഫലപ്രദമല്ല അത് നിങ്ങളുടെ ഭാഗമായിരിക്കണം അതിനാൽ ആ പരിധിവരെ വസ്തുതാപരമായ അറിവ് പ്രധാനമാണ് പക്ഷേ അവിടെ മാത്രം തുടരാൻ നമുക്ക് കഴിയില്ല കോൺസെപ്റ്റുവൽ നോലെഡ്ജ് അഥവാ ആശയപരമായ അറിവിലേക്ക് വരുന്നു ആശയങ്ങൾ വളരെ പ്രധാനമാണെന്ന് ഓരോ എഞ്ചിനീയറിംഗ് അധ്യാപകരും കരുതുന്നു ഒരു ആശയം എന്താണെന്ന് നിങ്ങൾ നിർവചിക്കാൻ ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമ്മുടെ അനുഭവം കാണിക്കുന്നു അത് വളരെ വ്യക്തമായി പറയാൻ കഴിയില്ല കോൺസെപ്റ്റിനെ ആശയങ്ങൾ കൂടുതൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നിവ പോലുള്ളവ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഔപചാരിക നിർവചനം നൽകാം ഒരു കോൺസെപ്റ്റ് ഒരു നിർദ്ദിഷ്ട വിഭാഗത്തിലെ അല്ലെങ്കിൽ നിർവചനങ്ങൾ ഉപയോഗിക്കുന്ന ക്ലാസിലെ എല്ലാ എന്റിറ്റികളെയും പ്രതിഭാസങ്ങളെയും ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു അതിനർത്ഥം നിങ്ങൾ കസേരകൾ പോലുള്ള എന്തെങ്കിലും ശേഖരിക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് പലതരം കസേരകളുണ്ട് എന്നാൽ നിങ്ങൾ എന്തെങ്കിലും നോക്കുന്ന നിമിഷം അത് ഒരു കസേരയാണോ അല്ലയോ എന്ന് നിങ്ങൾക്കറിയാം അതിനാൽ കസേര ശരിക്കും ഒരു കോൺസെപ്ട് അഥവാ ആശയമായി കണക്കാക്കാം ഞാൻ എന്തിനെയെങ്കിലും കസേര എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കസേര എന്ന് വിളിക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവഗണിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലേ അതിനാൽ അതാണ് നിർവചനം നിർദ്ദിഷ്ട വിഭാഗത്തിലോ നിർവ്വചനങ്ങൾ ഉപയോഗിക്കുന്ന ക്ലാസിലോ ഉള്ള എല്ലാ എന്റിറ്റികളെയും പ്രതിഭാസങ്ങളെയും ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു കോൺസെപ്റ്റുകൾ അവയുടെ വിപുലീകരണത്തിലെ കാര്യങ്ങളുടെ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്ന സംഗ്രഹമാണ് ഉദാഹരണത്തിന് നിങ്ങൾ എന്തിനെയെങ്കിലും മെറ്റൽ എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനും എന്തിനെയെങ്കിലും മെറ്റൽ എന്ന് വിളിക്കുന്നു മെറ്റൽ എന്ന പദം ഉപയോഗിക്കുമ്പോൾ രണ്ടോ മൂന്നോ വ്യത്യസ്ത ലോഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവഗണിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു വസ്തു ഒരു ലോഹമാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷം പോലെ മരം ഒരു കോൺസെപ്റ്റാണ് ഒരു മാവും തെങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവഗണിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ രണ്ടും മരങ്ങളാണ് ശരിയല്ലേ അതിനാൽ ആശയങ്ങൾ അവയുടെ വിപുലീകരണത്തിലെ കാര്യങ്ങളുടെ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്ന സംഗ്രഹമാണ് ക്ലാസിക്കൽ ആശയങ്ങൾ സാർവത്രികമാണ് അവ അവയുടെ വിപുലീകരണത്തിലെ എല്ലാത്തിനും തുല്യമായി ബാധകമാണ് അതായത് അവയുടെ വിപുലീകരണം ക്ലാസിക്കൽ ആശയങ്ങൾക്ക് വളരെ വലുതാണ് ഒരു വാക്ക് ഒരു വാക്യത്തിന്റെ അടിസ്ഥാന സെമാന്റിക് ഘടകമായ അതേ രീതിയിൽ ആശയങ്ങളും നിർദ്ദേശങ്ങളുടെ ഘടകങ്ങൾ പോലെയാണ് നിങ്ങൾ എങ്ങനെ ഒരു വാചകം നിർമ്മിക്കും നിരവധി വാക്കുകൾ ഉപയോഗിച്ച് അതുപോലെ ഒന്നിലധികം ആശയങ്ങൾ ചേർത്ത് ഒരു നിർദ്ദേശം നിർമിക്കാം രണ്ടോ മൂന്നോ ആശയങ്ങൾ സംയോജിപ്പിച്ച് ഒരു ബന്ധം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ കോൺസെപ്റ്റുവൽ നോലെഡ്ജ് ആയി കണക്കാക്കാം സാധാരണയായി നാം അതിനെ ഒരു പ്രിൻസിപ്പൾ അഥവാ തത്വം എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ കോൺസെപ്റ്റുവൽ നോലെഡ്ജ്ജിൽ ലോഹങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വിഭാഗങ്ങളും വർഗ്ഗീകരണങ്ങളും അവ തമ്മിലുള്ള ബന്ധവും ഉൾപ്പെടും അതായത് നമ്മൾഅതും കോൺസെപ്റ്റുവൽ നോലെഡ്ജ് ആയി കണക്കാക്കപ്പെടുന്നു അതിനു പുറമെ കോൺസെപ്റ്റുവൽ നോലെഡ്ജ്ജിൽ സ്കീമകൾ മെന്റൽ മോഡൽസ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കൂടാതെ എക്സ്പ്ലിസിറ്റ് തിയറീസ് എന്നിവ ഉൾപ്പെടുന്നു എല്ലാ സിദ്ധാന്തങ്ങളും കോൺസെപ്റ്റുവൽ നോലെഡ്ജ് ആയി കണക്കാക്കപ്പെടുന്നു സിദ്ധാന്തങ്ങളിലെ കോൺസെപ്റ്റുവൽ സ്കീമകളും മോഡലുകളും എന്താണ് ഒരു പ്രത്യേക വിഷയം എങ്ങനെ സംഘടിപ്പിക്കുകയും ഘടനാപരമാക്കുകയും ചെയ്യുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ചട്ടക്കൂടിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടാം കാരണം വാക്കുകൾ ഒരേ കാര്യമല്ല ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സ്വീകാര്യമായ നടപടിക്രമങ്ങൾ ഓരോ ശാഖയിലും സമാനമല്ല അതിനാൽ ഒരു പ്രത്യേക വിഷയം എങ്ങനെ സംഘടിപ്പിക്കുകയും ഘടനാപരമാക്കുകയും ചെയ്യുന്നുവെന്ന് സ്കീമകൾ പ്രതിനിധീകരിക്കുന്നു വിവരങ്ങളുടെ വിവിധ ഭാഗങ്ങളോ ബിറ്റുകളോ എങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടുതൽ ചിട്ടയായ രീതിയിൽ പരസ്പരബന്ധിതമായിരിക്കുന്നു ഈ ഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ക്ലാസിക്കൽ ഉദാഹരണമായി നമുക്ക് ഇത് നോക്കാം ഉദാഹരണത്തിന് കോൺസെപ്റ്റുവൽ നോലെഡ്ജ്ജിന്റെ സാമ്പിളുകൾ ഫോഴ്സ് ആക്സിലറേഷൻ വെലോസിറ്റി മാസ്സ് വോൾട്ടേജ് കറന്റ് ടെംപറേച്ചർ എൻട്രോപ്പി സ്ട്രെസ് സ്ട്രെയിൻ ഈ വാക്കുകൾ ഓരോന്നും ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് F ഫോഴ്സ് മാസ്സ് m ആക്സിലറേഷൻ a അതിനാൽ നിങ്ങൾ ഇതിനെ F ma എന്ന് വിളിച്ചാൽ മൂന്നും ആശയങ്ങളാണ് പക്ഷേ ഞാൻ അവയ്ക്കിടയിൽ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു അതും കോൺസെപ്റ്റുവൽ നോലെഡ്ജ് അഥവാ ആശയപരമായ അറിവാണ് നമ്മൾ ഇപ്പോൾ അതിനെ ഒരു പ്രിൻസിപ്പിൾ അഥവാ തത്ത്വം എന്ന് വിളിക്കുന്നു എന്ന് മാത്രം അതിനാൽ ഒരു തത്വത്തെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു നിയമം രണ്ടോ അതിലധികമോ ആശയങ്ങൾ തമ്മിലുള്ള പരസ്പരബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു അതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ മറ്റ് ഉദാഹരണങ്ങൾ കിർചോഫിന്റെ നിയമങ്ങളോ Kirchoff's laws തെർമോഡൈനാമിക്സ് നിയമങ്ങളോ ആണ് അവയെല്ലാം കോൺസെപ്റ്റുവൽ നോലെഡ്ജ്ജിന്റെ സാമ്പിളുകളാണ് ഇപ്പോൾ പ്രോസെഡ്യൂറൽ നോലെഡ്ജ് അഥവാ നടപടിക്രമ പരിജ്ഞാനത്തിലേക്ക് വരിക എന്തെങ്കിലും എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള അറിവാണ് അത് മനസിലാക്കാൻ ഇത് വളരെ ലളിതമാണ് എല്ലാ വിഷയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ശാഖകളിലും നിങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകണം ഒരു ഫലത്തിൽ എത്തിച്ചേരാനുള്ള ഘട്ടങ്ങളുടെ ഒരു ശ്രേണി ഞാൻ പിന്തുടരുന്നു അതിനാൽ ഇത് പലപ്പോഴും പിന്തുടരേണ്ട ഘട്ടങ്ങളുടെ ഒരു ശ്രേണി അല്ലെങ്കിൽ ക്രമത്തിന്റെ രൂപമെടുക്കുന്നു പക്ഷേ ആ ഘട്ടങ്ങൾ പിന്തുടരാനോ അല്ലെങ്കിൽ ആ ഘട്ടങ്ങൾ നടത്താനോ എനിക്ക് കഴിവുണ്ടായിരിക്കണം കൂട്ടമായി പ്രോസെഡ്യൂവേർസ് അഥവാ നടപടിക്രമങ്ങൾ എന്നറിയപ്പെടുന്ന സ്കിൽസ് അഥവാ കഴിവുകൾ അൽഗോരിതം ടെക്നിക്കുകൾ മെതേഡ്സ് അഥവാ രീതികൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഇതിൽ ഉൾപ്പെടുന്നു ഒരു അൽഗോരിതം ഒരു നടപടിക്രമമാണ് എന്നതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നിങ്ങൾ പിന്തുടരേണ്ട എന്തെങ്കിലും അളക്കുക എന്നതാണ് ടെക്നിക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിർദ്ദിഷ്ട മെറ്റീരിയലിന്റെ സാന്ദ്രത അളക്കുന്നതിനുള്ള ചില ഘട്ടങ്ങളുടെ ക്രമം ഇതിനു ഒരു ഉദാഹരണമായി നമുക്ക് പറയാം ഒരു നടപടിക്രമം പിന്തുടരുന്നതിനുപുറമെ രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കേണ്ടതുപോലെ എനിക്ക് ഒരു നടപടിക്രമം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ലാപ്ലേസ് പരിവർത്തനം ഞാൻ കണ്ടെത്തണം അതിനാൽ പിന്തുടരേണ്ട ഒരു നടപടിക്രമമുണ്ട് അതാണ് പ്രോസെഡ്യൂറൽ നോലെഡ്ജ് എന്നാൽ വിവിധ നടപടിക്രമങ്ങൾ എപ്പോൾ ഉപയോഗിക്കണമെന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള അറിവും ഇതിൽ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് എന്തെങ്കിലും നോൺ ലീനിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ലാപ്ലേസ് പരിവർത്തനം പ്രയോഗിക്കാൻ കഴിയില്ല ശരിയല്ലേ അതിനാൽ എന്തുചെയ്യണമെന്നും എങ്ങനെ സൃഷ്ടിക്കാമെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ഒരു ലാപ്ലേസ് പരിവർത്തനം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും എപ്പോൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ആ നടപടിക്രമം പ്രയോഗിക്കാൻ കഴിയുക എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതും പ്രോസെഡ്യൂറൽ നോലെഡ്ജ്ന്റെ ഭാഗമാണ് പലതവണ ഈ പ്രോസെഡ്യൂറൽ നോലെഡ്ജ് പ്രത്യേക വിഷയങ്ങൾക്കോ അക്കാദമിക് വിഷയങ്ങൾക്കോ പ്രത്യേകമാണ് അവ നിർബന്ധമായും സാർവത്രികമല്ല പ്രോസെഡ്യൂറൽ നോലെഡ്ജ്ന്റെ ചില ഉദാഹരണങ്ങൾ മാട്രിക്സ് ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുന്നു ലോജിക് എക്സ്പ്രഷനിൽ നിന്ന് ഒരു ട്രൂത് ടേബിൾ തയ്യാറാക്കുന്നു ഒരു ബോഡ് പ്ലോട്ട് വരയ്ക്കുന്നു സവിശേഷതകൾ അനുസരിച്ച് ഒരു ഫിൽട്ടർ രൂപകൽപ്പന ചെയ്യുന്നു ഇവയെല്ലാം പ്രോസെഡ്യൂറൽ നോലെഡ്ജ് ആണ് മെറ്റാകോഗ്നിറ്റീവ് നോലെഡ്ജ് എന്നറിയപ്പെടുന്ന വളരെ സാധാരണമല്ലാത്ത ഒന്ന് ഇപ്പോൾ വരുന്നു ഈ പ്രത്യേക കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു പൂർണ്ണ യൂണിറ്റ് ഉണ്ടാകും അധ്യാപകന് ഇതിനെക്കുറിച്ച് അറിയേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു എന്നാൽ നമുക്ക് നോക്കാം ഇത് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല മെറ്റാ കോഗ്നിറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ മെറ്റാകോഗ്നിറ്റീവ് അറിവ് പൊതുവെ കോഗ്നിഷൻ അഥവാ അവബോധത്തെക്കുറിച്ചുള്ള അറിവാണ് അതുപോലെ തന്നെ ഒരാളുടെ സ്വന്തം അവബോധത്തെക്കുറിച്ചുള്ള അറിവുമാണ് ഉദാഹരണത്തിന് ഏറ്റവും സാധാരണമായ കാര്യം പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാമെന്ന് നാം കരുതുന്നു പക്ഷെ അത് നമുക്ക് അറിയില്ലായിരിക്കാം നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടിവരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ലഭിക്കാൻ തുടങ്ങുമ്പോൾ നാം അത് മനസ്സിലാക്കുന്നു അതിനർത്ഥം നമുക്കറിയാമെന്ന് നാം കരുതിയത് നമുക്കറിയില്ല അതിനാൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എനിക്ക് എന്ത് അറിയാമെന്നത് എനിക്കറിയാമോ ഒരു വിദ്യാർത്ഥി തനിക്ക് ഇതിനകം അറിയാമെന്ന് തെറ്റായി കരുതുന്നുവെങ്കിൽ മുമ്പത്തെവരെ അറിയാത്ത ഒരു വ്യക്തിയെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനാൽ സംഭവിക്കുന്നത് അവൻ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അപര്യാപ്തമായിരിക്കും അല്ലെങ്കിൽ പകുതി മാത്രം വെന്തത് ആയിരിക്കും ഇപ്പോൾ മെറ്റാകോഗ്നിറ്റീവ് നോലെഡ്ജ്ന്റെ ചില വിഭാഗങ്ങൾ ഒരു ടാസ്ക് നൽകിയാൽ കയ്യിലുള്ള ചുമതല വിലയിരുത്തുക അതായത് എത്ര ശ്രമം ആവശ്യമാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പശ്ചാത്തല അറിവ് ആവശ്യമാണ് ഇതിന് എത്ര സമയമെടുക്കും അതിനാൽ കയ്യിലുള്ള ചുമതല വിലയിരുത്തുക ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഓ എനിക്ക് അരമണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും പരിഹരിക്കാൻ കഴിയും അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കില്ല അവന്റെ മെറ്റാകോഗ്നിറ്റീവ് നോലെഡ്ജ് മോശമാണെങ്കിൽ അത് തെറ്റായി ഭവിക്കും ഒരാളുടെ സ്വന്തം ശക്തിയും ബലഹീനതയും വിലയിരുത്തുന്നു ഓരോരുത്തർക്കും സ്വന്തം ശക്തികളെയും ബലഹീനതകളെയും കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കണം ഉചിതമായ സമീപനം ആസൂത്രണം ചെയ്യുന്നു തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും പ്രകടനം നിരീക്ഷിക്കുകയും ചെയ്യുന്നു എനിക്ക് എന്നെത്തന്നെ നിരീക്ഷിക്കാൻ കഴിയണം അതായത് ഞാൻ എന്തെങ്കിലും പിന്തുടരുകയാണ് ഞാൻ കൃത്യമായി പറഞ്ഞ പ്രകാരം നാഴികക്കല്ലുകൾ പിന്നിടുകയാണോ എന്റെ സ്വന്തം പ്രകടനം നിരീക്ഷിക്കാൻ എനിക്ക് കഴിയണം സ്വന്തം സമീപനം പ്രതിഫലിപ്പിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നു പ്രതിഫലിപ്പിക്കാനും മാറ്റങ്ങൾ വരുത്താനും എനിക്ക് കഴിവ് ഉണ്ടായിരിക്കണം ബുദ്ധിയും പഠനവും എന്താണെന്നതിനെക്കുറിച്ചുള്ള എന്റെ സ്വന്തം വിശ്വാസങ്ങൾ പൊതുവായ ഭാഷയിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മെറ്റാകോഗ്നിറ്റീവ് അറിവിനെക്കുറിച്ച് അനന്തമായ അനുമാനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി നമുക്ക് ഇവയെല്ലാം ഒരു തരം ഡയഗ്രാമിലേക്ക് മാറ്റാം ലേർണിംഗ് അഥവാ പഠനം ടീച്ചിങ് അഥവാ അദ്ധ്യാപനം അസ്സെസ്സ്മെന്റ് അഥവാ വിലയിരുത്തൽ എന്നിവക്ക് നമ്മൾ ഇതിനകം സൂചിപ്പിച്ച ഡൊമെയ്നുകളുണ്ട് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ അഫക്റ്റീവ് ഡൊമെയ്ൻ സൈക്കോമോട്ടർ ഡൊമെയ്ൻ മറ്റ് രണ്ട് ഡൊമെയ്നുകളും മറ്റ് യൂണിറ്റുകളിൽ നാം കുറച്ചുകൂടി വിശദീകരിക്കും കോഗ്നിറ്റീവ് ഡൊമെയ്നിലേക്ക് വരുന്നു കോഗ്നിറ്റീവ് പ്രോസസ്സുകളും നോലെഡ്ജ് കാറ്റഗറീസ് അഥവാ വിജ്ഞാന വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള മാനങ്ങൾ ഇതിന് ഉണ്ട് ഇതിന് രണ്ട് മാനങ്ങളുണ്ട് റിമെംബർ അഥവാ ഓർമ്മിക്കുക അണ്ടർസ്റ്റാൻഡ് അഥവാ മനസിലാക്കുക അപ്ലൈ അഥവാ പ്രയോഗിക്കുക അനലൈസ് അഥവാ വിശകലനം ചെയ്യുക എവല്യൂവേറ്റ് അഥവാ വിലയിരുത്തുക ക്രീയേറ്റ് അഥവാ സൃഷ്ടിക്കുക എന്നിവയാണ് കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ വിജ്ഞാന വിഭാഗങ്ങൾ ഫാക്ച്വൽ കോൺസെപ്റ്റുവൽ പ്രോസെഡ്യൂറൽ മെറ്റാകോഗ്നിറ്റീവ് എന്നിവയാണ് അളവുകൾ ഉണ്ടെന്ന് കാണാനാണ് നാം ശ്രമിക്കുന്നത് എഞ്ചിനീയറിംഗിന് മാത്രമായുള്ള വിജ്ഞാന വിഭാഗങ്ങൾ പിന്നീട് വരും എന്നാൽ ഇപ്പോൾ നാം ഇതുവരെ കൈകാര്യം ചെയ്തതെല്ലാം ഇതുപോലെ ഗ്രാഫിക്കായി ഓർഗനൈസുചെയ്യാനാകും അതിനാൽ ഇത് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ ജനറലിന്റെ ടാക്സോണമി ആണ് അതായത് ഈ ഭാഗം എഞ്ചിനീയറിംഗ് വിഷയങ്ങൾക്ക് മാത്രമല്ല മറ്റേതൊരു വിഷയത്തിനും ബാധകമാണ് ഇപ്പോൾ ഇത് ഓർമ്മിക്കേണ്ടതാണ് സാധാരണയായി നിങ്ങൾ ഒരു വിഭാഗത്തിൽ പെടുന്ന വിജ്ഞാന ഘടകങ്ങളുമായി മാത്രമല്ല ഇടപെടുന്നത് ഒരാൾ വസ്തുതാപരമായ വിജ്ഞാന ഘടകങ്ങളുമായി ഇടപെടുന്നുണ്ടാകാം ക്ലാസ് മുറിയിലെ വസ്തുതകളും കണക്കുകളും നിങ്ങൾ വിശകലനം ചെയ്യുന്നത് തുടരുന്നതുപോലെയാണ് ഇത് ഉദാഹരണത്തിന് എനിക്ക് ഒരു ആശയം വിവരിക്കാൻ കഴിയും എനിക്ക് ഒരു നടപടിക്രമം വിവരിക്കാൻ കഴിയും അതും വസ്തുതാപരമായ അറിവാണ് എന്ന് മനസിലാക്കുക വസ്തുതാപരമായ വിജ്ഞാന ഘടകങ്ങൾ ഞാൻ അറിയേണ്ടതുണ്ട് ഞാൻ ഓർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ ഇത് ഫാക്ച്വൽ കോൺസെപ്റ്റുവൽ മെറ്റാകോഗ്നിറ്റീവ് എന്നിവ ആകാം അത് ഇവ നാലും ചേർന്നതും ആകാം ഫാക്ച്വൽ കോൺസെപ്റ്റുവൽ പ്രോസെഡ്യൂറൽ മെറ്റാകോഗ്നിറ്റീവ് എന്നി ഘടകങ്ങൾ പഠിതാവ് മെറ്റാകോഗ്നിറ്റീവ് ഘടകങ്ങളുമായി നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും പഠന ഇവന്റുകൾ സംഘടിപ്പിക്കുന്നതിലും രൂപകൽപ്പന ചെയ്യുന്നതിലും മെറ്റാകോഗ്നിറ്റീവ് ഘടകങ്ങളുമായി ഇൻസ്ട്രക്ടർ ഇടപെടേണ്ടതുണ്ട് ഞങ്ങളുടെ ഗവേഷണങ്ങൾ കാണിക്കുന്നത് അധ്യാപകന് വിദ്യാർത്ഥികളുടെ മെറ്റാകോഗ്നിറ്റീവ് പരിജ്ഞാനത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവർ ക്ലാസ്സിൽ ചെയ്യുന്നതോ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്നതോ എല്ലാം ഫലപ്രദമാകണമെന്നില്ല ഇത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു എന്തായാലും നാം ആ പ്രശ്നങ്ങൾ നോക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനും പോകുന്നില്ല എന്നാൽ നിങ്ങൾ രാജ്യത്തുടനീളമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സർവേ നടത്തുകയാണെങ്കിൽ മത്സരപരീക്ഷാ റൂട്ടിലൂടെ പുറത്തുവരുന്ന വിദ്യാർത്ഥികളുടെ മെറ്റാകോഗ്നിറ്റീവ് പരിജ്ഞാനത്തിന്റെ വളരെ മോശം അവസ്ഥയാണ് കാണാനാവുക ഈ യൂണിറ്റിനായി അസൈൻമെന്റ് ഉണ്ട് നിങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ പരിചിതമായ കോഴ്സുകളിൽ നിന്നും 10 ഫാക്ച്വൽ നോലെഡ്ജ് ഘടകങ്ങൾ പട്ടികപ്പെടുത്തുക ഒരു വിഷയം എടുക്കുക നിങ്ങൾ സംസാരിക്കുന്ന വസ്തുതകളും കണക്കുകളും ഓരോ ഘടകത്തിനും ഒന്നോ രണ്ടോ വാക്കുകളായിരിക്കണം എന്നാൽ അവയിൽ 10 എണ്ണം ലിസ്റ്റുചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആശയങ്ങൾ പരിഗണിക്കുന്നവ അവയിൽ 10 എണ്ണം അല്ലെങ്കിൽ 10 തത്ത്വങ്ങൾ പട്ടികപ്പെടുത്തുക തത്ത്വങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട രണ്ടോ അതിലധികമോ ആശയങ്ങൾ മാത്രമാണ് അതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോഴ്സിൽ നിന്ന് 10 നടപടിക്രമങ്ങൾ നൽകുക ഇത് നിങ്ങളുടെ കോഴ്സിൽ നിന്ന് ഉദാഹരണങ്ങൾ മാത്രമാണ് നൽകുന്നത് വിജ്ഞാന ഘടകങ്ങളുടെ കാര്യത്തിൽ അല്പം വ്യത്യസ്തമായ ഒരു ചട്ടക്കൂടിൽ നിന്ന് നിങ്ങൾക്ക് വളരെ പരിചിതമായ വിഷയം നോക്കാൻ ആരംഭിക്കുക എന്നതാണ് ഈ പ്രവൃത്തിയുടെ ഉദ്ദേശ്യം അടുത്ത യൂണിറ്റ് മെറ്റാകോഗ്നിറ്റീവ് അറിവിന്റെ സ്വഭാവം നോക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിക്കും പഠിതാക്കളുടെ മെറ്റാകോഗ്നിറ്റീവ് അറിവ് വിലയിരുത്തുക മെറ്റാകോഗ്നിറ്റീവ് അറിവിന്റെ പ്രാധാന്യം കാരണം ഇതിന് ഒരു യൂണിറ്റെങ്കിലും ചെലവഴിക്കുന്നത് മൂല്യവത്താണെന്ന് എനിക്ക് തോന്നി വളരെയധികം നന്ദി